ഇവിടെ റിക്കവർ ചെയ്യുക എന്നുള്ളതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ സൈക്കിൾ പോകുന്നത് ഇങ്ങനെയാണ് Ti Tj ക്ക് വേണ്ടി കാത്തിരിക്കുന്നു Tj T k ക്കുവേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഇത് അവസാനം Ti ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇനി ഈ ഒരു ഡെഡ്ലോക്ക് മുറിക്കുവാൻ വേണ്ടി ഇതിൽ ഒന്നിനെ നമുക്ക് അബോർട്ട് ചെയ്യണം ഒന്നിനെ ബലിയാടാക്കണം ഇവിടെ നമ്മൾ Tk യെയാണ് ബലിയാടാക്കുന്നത് അതിന്റെ അർത്ഥം Tk റോൾ ബാക്ക് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ Tk കൈവശപ്പെടുത്തിയിരിക്കുന്നവ റിസോഴ്സുകളെയെല്ലാം റിലീസ് ആക്കുന്നു അപ്പോൾ Tj ക്ക് പാസ്സ് ആകുവാൻ പറ്റുന്നു അതിന്റെ അർത്ഥം Tj അവസാനം പൂർത്തിയാക്കുന്നു അങ്ങനെ വരുമ്പോൾ Ti ക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കും ഇതാണ് ഇതിന്റെ മുഴുവൻ പ്രഭാവം അപ്പോൾ ഇവയിൽ ഒന്നിനെ ബലിയാടാക്കണം ഇനി ചോദ്യം എന്തെന്നാൽ ഏതു ട്രാൻസാക്ഷനെയാണ് നമ്മൾ ബലിയാടാക്കേണ്ടത് എന്നതാണ് അതിന് ഒരുപാട് സ്കീമുകൾ ഉണ്ട് അതേസമയം തന്നെ കുറച്ച് ഹ്യൂറസ്റ്റിക്സും ഉണ്ട് ആദ്യം ഏറ്റവും വില കുറഞ്ഞ ട്രാൻസാക്ഷനെയായിരിക്കും നമ്മൾ ബലിയാടാക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് ട്രാൻസാക്ഷനുകൾ എല്ലാം ഓപറേഷനുകൾ ആണ് അവിടെ റീഡ് റൈറ്റ് എന്നീ ഓപ്പറേഷനുകൾ ഉണ്ട് ഇവയ്ക്ക് കുറച്ചു വിലയുണ്ട് അതിനെ കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് ക്വയറി പ്രോസ്സസിങ് എൻജിൻ ആണ് അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ട്രാൻസാക്ഷനാണ് റോൾ ബാക്ക് ചെയ്യുന്നത് എങ്കിൽ വളരെ കുറച്ചു ജോലിമാത്രമേ വീണ്ടും ചെയ്യേണ്ടി വരികയുള്ളു അപ്പോൾ ഇതിന് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കുവാൻ സാധിക്കും ഇത് വീണ്ടും ചെയ്യണമെങ്കിൽ അത് ഒരു പ്രശ്നം ആകുന്നില്ല ഇതാണ് വില കുറഞ്ഞതിന്റെ കാര്യം ഇനി അടുത്ത ഹ്യൂറിസ്റ്റിക് എന്നത് ഏറ്റവും കുറഞ്ഞ പുരോഗതിയുള്ള ട്രാൻസാക്ഷനെ കുറിച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നു വച്ചാൽ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ട്രാൻസാക്ഷനെയാണ് എടുത്തത് എങ്കിലും അത്ര വലിയ ഗുണം ചെയ്യണം എന്നില്ല കാരണം അതിന് വില കുറവാണെങ്കിലും അത് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ടാകും അപ്പോൾ അതിനെ റോൾ ബാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ എല്ലാ ജോലിയും ചെയ്യേണ്ടിവരും ഇനി രണ്ടാമത്തെ ഹ്യൂറിസ്റ്റിക്സ് എന്തെന്നാൽ ഏറ്റവും കുറവ് പുരോഗമനം വന്നിട്ടുള്ള ട്രാൻസാക്ഷനെ നമ്മൾ തിരഞ്ഞെടുക്കണം അതിന്റെ അർത്ഥം എന്തെന്നു വച്ചാൽ ഓപ്പറേഷനിലെ ക്രമത്തിൽ അത് വളരെ കുറച്ചു മാത്രമേ ചെയ്തിട്ടുണ്ടാകുകയുള്ളു ഏറ്റവും കുറച്ചു ജോലി മാത്രമേ ചെയ്തിട്ടുണ്ടാക്കുകയുള്ളു അതിനെ ബലിയാടാക്കുകയോ അല്ലെങ്കിൽ റോൾ ബാക്ക് ചെയ്യുകയോ ചെയ്താൽ വളരെ കുറച്ചു ജോലി മാത്രമേ നമുക്ക് നഷ്ടമാകുകയുള്ളു ഇത് രണ്ടാമത്തെ ഹ്യൂറിസ്റ്റിക്സ് ഇനി മൂന്നാമത്തെ ഹ്യൂറിസ്റ്റിക്സ് എന്നത് ഏറ്റവും കുറവ് കാസ്കെഡിങ് റോൾബാക്കുകൾ ഉണ്ടാക്കുന്നതിനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരു ഡേറ്റാ ബെയിസിന്റെ കെയിസിൽ ട്രാൻസാക്ഷൻ റോൾ ബാക്കുകൾ വരുകയാണെങ്കിൽ അതിന് ഒരു ശൃംഗലയായിട്ട് കാസ്കെഡിങ് റോൾ ബാക്കുകൾ വരാം ആ ട്രാൻസാക്ഷന് ഒരുപാട് പുരോഗമനവും നല്ല വിലയും ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ദൂരം അത് പോയിട്ടുണ്ടെങ്കിലും അതിന് റോൾ ബാക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് കാസ്കെഡിങ് റോൾ ബാക്കുകൾ ഉണ്ടാകാൻ ഉള്ള ഒരു പ്രശ്നം ഇത് ഉണ്ടാക്കും അപ്പോൾ ക്യാസ്കേഡിങ് റോൾബാക്ക് ചെയ്ത എല്ലാത്തിനെയും വീണ്ടും ചെയ്യേണ്ടിവരും അതിനു വില കൂടുതലാണ് അപ്പോൾ കുറഞ്ഞ രീതിയിൽ ക്യാസ്കേഡിങ് റോൾബാക്ക് വഴി മറ്റു ട്രാൻസാക്ഷനുകളെ ബാധിക്കുന്ന ട്രാൻസാക്ഷനിനെ ആണ് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ അപ്പോൾ മൂന്ന് ഹ്യൂറിസ്റ്റിക് ഉണ്ട് അത് വെച്ച് ആണ് ഏത് ട്രാന്സാക്ഷനെ ആണ് ബലിയാട് ആക്കേണ്ടത് എന്നും റോൾ ബാക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നും തീരുമാനിക്കുന്നത് അടുത്ത ചോദ്യം എന്തെന്നാൽ എത്രദൂരം റോൾ ബാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ചോദ്യം എന്തെന്നാൽ ഏത് ട്രാൻസാക്ഷനെ ആണ് റോൾ ബാക്ക് ചെയ്യേണ്ടത് എന്നായിരുന്നു ഇനിയുള്ളത് എത്ര ദൂരം റോൾബാക്ക് പോകും എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ പറയാൻ സാധിക്കുക ഒരു ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും തുടക്കത്തിൽതന്നെ പോയി നിൽക്കും അതായത് ചെയ്ത എല്ലാ ഓപ്പറേഷനുകളും നിഷ്ഫലമായിപ്പോകും അതിന് വീണ്ടും തുടങ്ങേണ്ടി വരും അതായത് ഇത് പൂർണമായും അബോർട്ട് ആയി പോകും അപ്പോൾ ഇത് പൂർണ്ണമായും അബോട്ട് ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരുകാര്യം എന്നത് പാർഷ്യൽ റോൾ ബാക്ക് ആണ് അത് എന്താണ് എന്ന് വെച്ചാൽ ഇതിലെ എല്ലാ ഓപ്പറേഷനുകളും തെറ്റ് ആകണമെന്നില്ല അതിലെ എല്ലാ ഓപ്പറേഷനുകളും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ഇല്ല അപ്പോൾ പ്രശ്നം ഉള്ള ഭാഗം മാത്രമേ റോൾ ബാക്ക് ചെയ്യുന്നുള്ളൂ നമ്മൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് റിക്കവറബിലിറ്റിയെ കുറിച്ച് ഒന്നുമല്ല ഡെഡ്ലോക്കിനെ കുറിച്ച് ആണ് അപ്പോൾ ഡെഡ്ലോക്ക് മുറിയുന്നത് വരെ റോൾ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്ക് പോകാം Ti Tj ക്ക് വേണ്ടി കാത്തിരിക്കും ഇത് Tk ക്ക് ക്ക് പിന്നെ അങ്ങനെ പോകും ഇനി ഡേറ്റ ഐറ്റം x കാരണം Ti Tj യ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കഴിഞ്ഞു അതിനുമുൻപ് Tk ഡേറ്റ ഐറ്റം y യെ കൈവശപ്പെടുത്തി ഇരിക്കുകയായിരുന്നു അതിനുശേഷം ഡേറ്റ ഐറ്റം z നെ കൈവശപ്പെടുത്തുന്നു അതിനുശേഷം ഡേറ്റ ഐറ്റം w നെ കൈവശപ്പെടുത്തുന്നു ഇവിടെ അപ്പോൾ പ്രശ്നം x ൽ ആണ് അതുകൊണ്ട് Tk യെയാണ് നമ്മൾ ബലിയാടാക്കുന്നത് ഇനി x നെ റിലീസ് ചെയ്യുകയാണെങ്കിൽ Tj മുന്നോട്ട് വരും Tj മുന്നോട്ടു പോയതിനു ശേഷം Ti വരും അങ്ങനെ ഈ ഡെഡ്ലോക്ക് മുറിക്കുവാൻ സാധിക്കും അതിന്റെ അർത്ഥം എന്താണെന്നു വച്ചാൽ പ്രശ്നമുള്ള ഡേറ്റാ ഐറ്റം വരെയെ ഇത് റോൾബാക്ക് ചെയ്യു Tj റോൾ ആകുകയാണ് കാരണം Tj കാത്തിരിക്കുന്നുണ്ടായിരുന്നു y യെ എന്തുകൊണ്ടാണ് നമ്മൾ റോൾ ബാക്ക് ചെയ്യാത്തത് കാരണം y യിൽ പ്രശ്നം വരുന്നില്ല അതിനാൽ പ്രശ്നം ഉള്ളയിടത്തിൽ മാത്രമെ ഇവിടെ റോൾ ബാക്ക് ചെയ്യുകയുള്ളു പക്ഷേ ഇതിന് ഒരുപാട് സ്കിമാറ്റിക് അനാലിസിസ് ആവശ്യമുണ്ട് അതിൻറെ കൂടെ അത് അറിഞ്ഞിരിക്കണം ഏത് ഡേറ്റ ഐറ്റത്തെ ആണ് അതിന് കൈവശപ്പെടുത്താൻ സാധിക്കുക എന്ന് പക്ഷേ ഈ പാർഷ്യൽ റോൾ ബാക്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം y യിൽ ഉള്ള ഓപ്പറേഷനുകൾ ഇവിടെ റോൾ ബാക്ക് ചെയ്യുന്നില്ല പക്ഷേ ഈ y യുടെ ഓപ്പറേഷനുകൾ ചിലപ്പോൾ z ൻറെയും w ൻറെയും ഓപ്പറേഷനുകളെ ബാധിക്കാം അതുകൊണ്ട് എല്ലാവരെയും കൈകാര്യം ചെയ്യണം ഇപ്പോൾ പൊതുവായി പറയുകയാണെങ്കിൽ ഏത് ഓപ്പറേഷൻ ആണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്നത് എന്ന് നോക്കി വെക്കണം അത് എന്തായാലും ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട് അത് വെച്ച് എവിടെ വരെ റോൾ ബാക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം എവിടെയാണ് ഡെഡ്ലോക്ക് മുറിയുന്നത് എന്ന് നോക്കാം ഇതാണ് എത്ര ദൂരം വരെ റോൾ ബാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻറെ വിശദീകരണം അടുത്ത ചോദ്യം എന്നത് ഡെഡ്ലോക്ക് റിക്കവറി സ്കീമിൽ ഉള്ള സ്റ്റാർവേഷനിനെക്കുറിച്ചാണ് ഇവിടെ ഒരേ ട്രാൻസാക്ഷനിനെ ബലിയാടായി വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നതു കൊണ്ട് സ്റ്റാർവേഷൻ ഉണ്ടാകുന്നു ഈ ഒരു ട്രാൻസാക്ഷൻ വളരെ ചെറിയ പുരോഗമനം അല്ലെങ്കിൽ വളരെ ചെറിയ വിലയ്ക്ക് ഉള്ളതുകൊണ്ടാകാം ഇതിനെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ സ്റ്റാർവേഷൻ ഉണ്ടാകാം ഈ സ്റ്റാർവേഷനിൻറെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓരോ ട്രാൻസാക്ഷനിനേയും ബലിയാട് ആക്കുമ്പോൾ അതിന് ഒരു കണക്ക് വെച്ചിട്ടുണ്ട് ഒരു ട്രാൻസാക്ഷനിനെ ഓരോ പ്രാവശ്യവും തിരഞ്ഞെടുക്കുന്നതിന് ഒരു പരിധി വെച്ചിട്ടുണ്ടാകും ഉദാഹരണത്തിന് 3 എന്ന് വയ്ക്കുക ഒരു ട്രാൻസാക്ഷൻ മൂന്നു പ്രാവശ്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനെ അടുത്ത പ്രാവശ്യം വീണ്ടും ബലിയാട് ആയി തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിനെ മൂന്നുപ്രാവശ്യം സ്റ്റാർവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും ഇത് സ്റ്റാർവേഷനിനെ മുറിക്കാൻ വേണ്ടിയിട്ട് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോക്കുകളെ കുറിച്ചും ഡെഡ്ലോക്ക് റിക്കവറിയെ കുറിച്ചും ഉള്ളവ ഇനി നമുക്ക് കൺ കറൻസി കൺട്രോൾ പ്രോട്ടോകോളിനെക്കുറിച്ച് നോക്കാം നമ്മൾ റീഡും റൈറ്റും പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇനി ഡേറ്റാബേസിലുള്ള രണ്ടു പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ നമ്മൾ വിട്ടുപോയിരുന്നു ഇൻസേർഷനും ഡെലീഷനും ഒരു ടൂപിളിനെ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയോ ഡെലീറ്റ് ചെയ്യുകയോ ചെയ്താൽ എന്തു സംഭവിക്കും അല്ലെങ്കിൽ ആട്രിബ്യൂട്ടുകളെയാണ് ഇങ്ങനെ അപ്പ്ഡേറ്റ് ചെയ്തതതെങ്കിൽ എന്തു സംഭവിക്കും ഓർക്കുക അപ്ഡേറ്റുകളെയെല്ലാം നമുക്ക് ഡെലീഷൻ വച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും ഇൻസേർഷൻ വച്ചും അപ്പോൾ ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻസേർഷനെക്കുറിച്ചും ഡെലീഷനെക്കുറിച്ചും ആണ് ഇവിടെ എന്തു സംഭവിക്കും ഉദാഹരണത്തിന് ഡേറ്റ ഐറ്റം x ന് രണ്ട് ഓപ്പറേഷനുകൾ ഉണ്ട് നമുക്ക് നോക്കേണ്ടത് ഇൻസേർട്ട് insert ഡെലീറ്റ് delete നെക്കുറിച്ചാണ് ഇൻസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് x നെ പുതുതായി ഒരു സ്ഥലത്തേക്ക് കയറ്റുകയാണ് ഡെലീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആണ് നമ്മൾക്ക് ഇനി ഇവിടെ ലോജിക്കൽ എററുകളെ ഒന്ന് ചുരുക്കി പറയാം ഇവിടെ ഇൻസർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ സമയത്ത് ഉണ്ടാകുന്ന ലോജിക്കൽ എററുകൾ എന്തൊക്കെ ആണ് എന്ന് വെച്ചാൽ ഇവിടെ x റീഡോ അല്ലെങ്കിൽ റൈറ്റോ ഇൻസർട്ട് നടക്കുന്നതിനു മുൻപ് ഉണ്ടാകാം ഒരു ട്രാന്സാക്ഷന് x നെ വായിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ വേണം പക്ഷേ അതിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ പൂർത്തിയായിട്ടില്ല അത് ഒരു എറർ ആണ് പിന്നെ റീഡ് എക്സും റൈറ്റ് എക്സും വരുന്നത് x ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ട് ആവാം അങ്ങനെ വരുമ്പോൾ ഇതിനെ വായിക്കേണ്ടി അല്ലെങ്കിൽ എഴുതേണ്ടിയിരുന്ന ട്രാൻസാക്ഷനുകൾ വൈകി ആണ് വരുന്നത് അത് എത്തുമ്പോഴേക്കും ഇത് ഡിലീറ്റ് ആയിട്ട് ഉണ്ടാകും ഇവിടെ മറ്റു തരത്തിലുള്ള എററുകളും ഉണ്ട് കാരണം ഇത് ഐഡംപൊട്ടെൻന്റ് ഓപ്പറേഷൻ അല്ല അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഡേറ്റ ഐറ്റത്തെ ഡെലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഡെലീറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഡെലീഷൻ ഓപ്പറേഷൻ ഐഡംപൊട്ടൻറ് അല്ല ഇത് ഇൻസേർഷനിൽ വരുന്ന ഒരു എറർ ആണ് അതായത് ഒരു പ്രാവശ്യം ഒരു ഡേറ്റാ ഐറ്റത്തെ ഒരു ട്രാൻസാക്ഷൻ ഇൻസെർട്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ട്രാൻസാക്ഷനിനു അടുത്ത ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല കാരണം ആ ഒരു സ്ഥലം നേരത്തെ റെക്കോഡിൽ അല്ലെങ്കിൽ ഡേറ്റാബേസിൽ ആയിക്കഴിഞ്ഞു ഇതാണ് ഇൻസേർഷനും ഡെലീഷനും വരുന്ന പ്രശ്നങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ കുറച്ചു കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി insert നേയും delete നേയും റൈറ്റ് X നെ പൊലെയാണ് എന്ന് കരുതുക അപ്പോൾ ഇൻസെർട്ടിന്റെ കൂടെയും ഡിലീറ്റിന്റെ കൂടെയും വരുന്ന എല്ലാ സംഘർഷങ്ങളും റൈറ്റിന്റെ കൂടെയും വരും അതിന്റെ അർത്ഥം ഏത് ഇൻസർട്ട് ആയിരുന്നാലും അത് റൈറ്റുമായുള്ള ഒരു സംഘർഷമാണ് അതു പോലെ ഏതൊരു ഇൻസെർഷനും മറ്റ് ഇൻസെർഷന്റെയുമായിട്ടുള്ള ഒരു സംഘർഷമാണ് അതുപോലെ ഏതൊരു ഇൻസെർഷനും ഡിലീറ്റുമായിട്ടുള്ള ഒരു സംഘർഷമാണ് ഇവിടെ ഞാൻ വിട്ടു പോയ മറ്റൊരുകാര്യം എന്തെന്നാൽ ഡിലീറ്റ് x ഇൻസെർട്ട് x ന് മുന്നേ വന്നാൽ അത് പ്രശ്നമാണ് ഒരെണ്ണത്തെ ഡിലീറ്റ് ചെയ്യണം പക്ഷേ അത് നേരത്തെ ചെയ്തു പോയാൽ അത് പ്രശ്നമാണ് ഇനി ഇൻസേർഷനേയും ഡെലീഷനെയും നമ്മൾ റൈറ്റ് x ആയിട്ടാണ് കാണുന്നതെങ്കിൽ റൈറ്റ് x ലുള്ള എല്ലാ സംഘർഷങ്ങളേയും ഇൻസേർഷനിലോട്ടും ഡെലീഷനിലോട്ടും കൊടുക്കുകയാണ് പിന്നെ ലോക്ക് കോംപാക്റ്റിബിലിറ്റി മെട്രിക്സ് അങ്ങനെ വരുമ്പോൾ എല്ലാ സംഘർഷങ്ങളേയും റൈറ്റ് x നെപ്പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാം ശരിയാകും അതാണ് ഇൻസേർഷനിലും ഡെലീഷനിലും വരുന്ന കാര്യം ഇങ്ങനെ വേണം അതിനെ കൈകാര്യം ചെയ്യാൻ ഈ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോളിനെ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു ഫിനോമിനനിനെക്കുറിച്ച് കൂടി സംസാരിക്കാം ഫാൻറം ഫിനോമിനൻ ഉദാഹരണത്തിന് ട്രാൻസാക്ഷൻ T1 ഉണ്ട് അത് റിലേഷൻ r1 നെ വായിക്കുന്നു നമ്മൾക്ക് അതിനെ അഗ്രിഗെഷനുമായി മത്സരിക്കുന്നു എന്ന് പറയാം അതേ സമയം ട്രാൻസാക്ഷൻ T2 എന്നത് ചില ഫീൽഡ് യൂണിറ്റുകളെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതിനെ ഇൻസേർട്ട് ചെയ്യുന്നു ചിലപ്പോൾ ട്യൂപിളുകളെയാകും ഇൻസേർട്ട്ചെയ്യുക ഇവിടെ അപ്പോൾ ഈ T1 ലും T2 വിലും സംഘർഷം വരും കാരണം അഗ്രിഗേഷൻ ഇവിടെ തെറ്റായിരിക്കും ഇതിനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷെ ഇതിനെ കണ്ടു പിടിക്കാൻ പ്രയാസമായിരിക്കും കാരണം എവിടെയാണ് ഇൻസേക്ഷൻ നടക്കുന്നത് ഇൻസേർഷൻ റിലേഷൻ r1 ൽ അല്ല നടക്കുന്നത് അത് ട്യൂപിളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫീൽഡിനകത്തോ ആയിരിക്കും ഇത് പുതുതായി ഇൻസേർട്ട് ചെയ്ത ട്യൂപിൾ ആണ് അപ്പോൾ ഇതാണ് പുതിയ ട്യൂപിൾ അതിനെയാണ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത് അതിനെ T1 ന് ലോക്ക് ചെയ്യുവാൻ പറ്റുകയില്ല അവിടെ നേരത്തെ ട്യൂപിൾ ഉണ്ടായിരുന്നില്ല IS മോഡ് ആയിരിക്കുമ്പോഴും ഈ r1 നെ ലോക്കു ചെയ്താൽ ഇതിന് താഴെ ഉള്ള എല്ലാ പെരേയും ലോക്കു ചെയ്തിട്ടുണ്ടെങ്കിലും ഈ f11 നെ ലോക്ക് ചെയ്യുവാൻ പറ്റില്ല അങ്ങനെ ഒരു ട്യൂപിൾ ഇവിടെ ഇല്ല അതുകൊണ്ട് ഇതിനെ ഇവിടെ ഇൻസെർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇതിനെ എന്തുകൊണ്ടാണ് ഫാന്റം ഫിനോമെനൻ എന്നു പറയുന്നത് കാരണം r1 നെ ലോക്കുചെയ്താലും അത് ഇതിനെ ലോക്കുചെയ്യുകയില്ല പക്ഷേ ലോജിക്കൽ ആയി ഒരു സംഘർഷം ഉണ്ടാകും അതിനെ നമ്മൾ ഫാന്റം ട്യൂപിൾ എന്നു പറയുന്നു എന്തു കൊണ്ടാണ് ഫാന്റം ട്യൂപിൾ എന്ന് പറയുന്നത് കാരണം r1 ന് അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് അറിയില്ല അപ്പൊൾ r1 ന് f11 എന്നത് ഫാന്റം ട്യൂപിൾ ആണ് f11 ട്രാൻസാക്ഷൻ ഒന്നിന് വേണ്ടി നിലനിൽക്കുന്നില്ല അപ്പോൾ ഇതാണ് ഫാന്റം ട്യൂപിൾ ഡേറ്റാബെയിസിൽ മനസ്സിലാകുവാൻ ഏറ്റവും പാടുള്ളത് ഇതാണ് ഇൻസേർഷൻ എന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതാണ് അപ്പൊൾ ഇതാണ് ഫാന്റം ഫിനോമെനൻ ഇത് ഫാന്റം ട്യൂപിൾ ഈ മൊത്തം ഫിനോമിനനിനെ നമ്മൾ ഫാന്റം ഫിനൊമിനൻ എന്നു പറയുന്നു എക്സ്ക്ലൂസീവ് ലോക്കിന് ഇതിനെ പരിഹരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അറിയാം അതുകൊണ്ട് ഈ റിലെഷൻ r ന് എക്സ്കളൂസിവ് ലോക്ക് കൊടുക്കണം ഇതാണ് ആ കൊണ്ടുവന്ന എക്സ്ക്ലൂസീവ് ലോക്ക് ഇതിനെ വായിക്കുമ്പോൾ ഒക്കെ എക്സ്ക്ലൂസീവ് ലോക്ക് ഇതായിരിക്കും അപ്പോൾ മൾട്ടി ഗ്രാനുലാരിറ്റി ലോക്കിങ്ങിന് ഇതിനെ പരിഹരിക്കുവാൻ സാധിക്കും എപ്പോഴൊക്കെയാണോ ഇൻസർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് മാതാപിതാക്കളുടെ അവിടം വരെ പോകുമ്പോൾ r1 S മോഡിലാണ് എന്ന് കാണുന്നു ഇത് അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഇതിനെ ഇൻസർട്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല ഇൻസർട്ട് ചെയ്യുന്നത് x ലോക്കിലാണ് പക്ഷേ ഇത് നേരത്തെ ഷെയേഡ് മോഡിൽ ആണ് അപ്പോൾ നമുക്ക് എക്സ്ക്ലൂസീവ് ലോക്ക് കിട്ടില്ല അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ഗ്രാനുലാരിറ്റി സഹായിക്കും നമ്മൾ അതിനെ കുറിച്ച് നേരത്തെ കണ്ടതാണ് ഇത് വളരെ പാടുള്ളതും ആകർഷകവുമായിട്ടുള്ള ഭാഗമാണ് ഇതാണ് ഫാന്റം ഫിനോമെനൻ ഇനി ഈ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി നോക്കണം നമ്മൾ ഡേറ്റാബേസ് റിലേഷനെക്കുറിച്ചൊക്കെ നോക്കി പക്ഷേ ഡേറ്റാബേസ്സുകൾ ഇൻഡക്സ് സ്ട്രക്ച്ചർ കൂടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇൻഡക്സ് ലോക്കിങ്ങിനെ കുറിച്ച് കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഡക്സിൽ നമ്മൾ ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇൻഡക്സ് നോഡുകളെ ലോക്ക് ചെയ്യണം അതിൻറെ അർത്ഥം എന്തെന്നാൽ ഇൻഡക്സ് നോഡുമായി വരുന്ന ഡേറ്റ ഐറ്റത്തെ ലോക്ക് ചെയ്യുന്നു എന്നാണ് ഇത് ഫാൻറം ഫിനോമിനനിൽ നിന്ന് ഒഴിവാകാൻ സഹായിക്കും കാരണം ഇൻസേർഷൻ ഇൻഡക്സ് ലോക്കിൽ സ്ഥിരമായി നടക്കുന്ന ഒന്ന് ആണ് അതിൻറെ കൂടെ തന്നെ ഇൻഡക്സ് നോഡ് ലോക്ക് ആയിരിക്കും കാരണം അത് ഒരു പ്രത്യേക ട്യൂപുളിനെ തൊടും ഇതോടെ കറൻസി കൺട്രോളിൻറെ മൊഡ്യൂൾ തീരുകയാണ് നമുക്ക് ഇനി അടുത്തത് SQL ബിഗ് ഡേറ്റ നോക്കാം